നാലാമത്തെ അസൈൻമെന്റ് ലെ ചോദ്യങ്ങൾ ആയിരിക്കും നാം ഇവിടെ ചർച്ച ചെയ്യുക അതായതു യൂണിറ്റ് 7 ലേയും 8 ലേയും ഉള്ള നോഡൽ അനാലിസിസ് ഇവിടെ ആദ്യ ചോദ്യം എന്നത് നിങ്ങൾക്കു ഒരു സർക്യൂട് തന്നിരിക്കുന്നു അതിന്റെ കണ്ടക്ടൻസ് മാട്രിക്സ് നിർണയിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി നോഡൽ അനാലിസിസ് ന്റെ ലളിതമായ ഒരു ചോദ്യമാണ് ഇത് എന്തെന്നാൽ ഇവിടെ റെസിസ്റ്റർ പിന്നെ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് എന്നിവ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ നാലു നോഡുകൾ മാത്രമാണുള്ളത് റഫറൻസ് നോഡ് മുൻകൂട്ടി തന്നിട്ടുണ്ട് ഈ നോഡുകൾ 1 2 3 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ ഇത് ശരിയായ ക്രമത്തിൽ എഴുതിയാൽ ഉത്തരങ്ങൾ നോക്കാൻ എളുപ്പമായിരിക്കും ഞാൻ ഇവിടെ നോഡൽ അനാലിസിസ് ഇക്വേഷനുകൾ സെറ്റ് അപ്പ് ചെയ്യുന്നു നമുക്ക് G V എന്നത് I ആണ് പതിവ് പോലെ തന്നെ നമുക്ക് മൂന്ന് നോഡുകൾ വച്ച് ആരംഭിക്കാം നമുക്ക് നോഡ് 1 നോഡ് 2 നോഡ് 3 എന്നിവ ആണ് ഉള്ളത് നാം ഇനി നോഡ് 1 നോക്കിയാൽ ഇവിടെ കണ്ടക്ടൻസ് എന്നത് 0 5 മില്ലി സീമെൻസ് ആണ് എന്നാൽ ഇവിടെ 1മില്ലി സീമെൻസ് നമുക്ക് ഇവയെല്ലാം റെസിസ്റ്റൻസ് ആക്കി മാറ്റുന്നതാകു൦ ഉപയോഗപ്രദം 5 പിന്നെ ഇതും 0 അപ്പോൾ ഇത് 1 മില്ലി സീമെൻസ് ആണ് പിന്നെ ഇതും അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ തുക എന്നത് 1 5 മില്ലി സീമെൻസ് ആണ് പിന്നെ നോഡ് 1 നും 2 നും ഇടയിലായി ഉള്ളത് G12 അത് 1 മില്ലി സീമെൻസ് ആണ് എന്നാൽഒരു നെഗറ്റീവ് ആണ് കണ്ടക്ടൻസ് എന്ന് കാണാം പിന്നെ ഈ നോഡ് 1 നും 3 നും ഇടയിലായി മറ്റു കണ്ടക്ടൻസ് ഒന്നും തന്നെ ഇല്ല അത് 0 ആകും ഇനി നോഡ് 2 എടുത്താൽ അവിടെ ഇക്വേഷൻ 1 1 0 5 അത് നമുക്ക് 2 പിന്നെ നോഡ് 1 നും 2 നും ഇടയിലായി ഉള്ളത് 1 മില്ലി സീമെൻസ് നമുക്ക് കാണാനാകും ഈ പ്രത്യേക കേസിൽ ഇത് സിമെട്രിക്കൽ ആണ് ഇതും 1 പിന്നെ ഇതും 1 അത് രണ്ടും ഒന്നാണ് ഒരു മാട്രിക്സ് സിമെട്രിക്കൽ ആകാൻ അത് മതി ആകും പിന്നെ നോഡ് 2 ലും 3 ലും വീണ്ടും ഈ 1മില്ലി സീമെൻസ് ലഭിക്കും അവസാനം ഈ നോഡ് 3 ലേക്ക് വരിക നിങ്ങൾ കണ്ടു ഇത് 0 5 0 5 പിന്നെ 1 എന്നതാണ് അത് ആകെ 2 മില്ലി സീമെൻസ് ആണ് പിന്നെ നോഡ് 2 നും 3 നും ഇടയിലായി 1 മില്ലി സീമെൻസ് അത് നമുക്ക് 1 ആയി പ്രത്യക്ഷപ്പെടുന്നു ഈ അറ്റത്തു നമുക്ക് 0 ആണ് ഉള്ളത് അതിനാൽ ഇത് x ഈ അൺ നോൺ വെക്റ്റർ അത് V1 V2 V3 എന്നിവ ആണ് ഇതിൽ V1 എന്നത് ഇവിടെയും V2 എന്നത് ഇവിടെയും പിന്നെ V3 എന്നത് ഇവിടെയും ആണ് ഇവ നോഡൽ വോൾടേജ് ആണ് അത് കണക്കാക്കുന്നത് ഈ റഫറൻസ് നോഡ് ആധാരമാക്കി ആണ് ഇനി നമുക്ക് ഈ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് നോഡുകളിലേക്കു എത്ര കറന്റ് ആണ് കൊടുക്കുന്നത് എന്ന് നോക്കേണ്ടതുണ്ട് ആദ്യം നോഡ് 1 നോക്കുക നോഡ് 1 ലേക്ക് 4 മില്ലി ആംപിയർ ആണ് കടത്തി വിടുന്നത് നോഡ് 2 ൽ നിന്നും 4 മില്ലി ആംപിയർ കറന്റ് പുറത്തേക്കു പോകുന്നു അതായതു വേറൊരു രീതിക്കു പറഞ്ഞാൽ 4 മില്ലി ആംപിയർ കടത്തി വിടുന്നു അവസാനം നോഡ് 3 ൽ നിന്നും 8 മില്ലി ആംപിയർ പുറത്തേക്കു പോകുന്നു അതിനർത്ഥം 8 മില്ലി ആംപിയർ കടത്തി വിടുന്നു ഇതാണ് നോഡൽ അനാലിസിസ് ഇക്വേഷനുകൾ നിങ്ങൾക്കു വേണ്ട V1 V2 V3 അങ്ങനെ എല്ലാം തന്നെ ഇത് സോൾവ് ചെയ്താൽ ലഭിക്കുന്നതാണ് തീർച്ചയായും ഈ പ്രത്യേക ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് G മാട്രിക്സ് മാത്രമാണ് ഇത് രേഖപ്പെടുത്തുക എന്നത് ഒരു തര൦ റീസെറ്റ് ആണ് അതിനാൽ ഇങ്ങനെ വേണം രേഖപ്പെടുത്താൻ ഉത്തരം എഴുതാൻ നിങ്ങൾക്കു അല്പം സ്ഥലം നൽകിയിട്ടുണ്ട് ഈ മാട്രിക്സ് ൽ 3 റോ ഉണ്ട് പിന്നെ 1 പോയിന്റ് ഡെസിമൽ സ്ഥാനത്തേക്ക് ഈ വാല്യൂ നിങ്ങൾ റൌണ്ട് ചെയ്യണം ഈ ഡെസിമൽ സ്ഥാനത്തിന്റെ ഇടതു വശത്തു ഇന്റിജെർ ആണ് ഇവിടെ യൂണിറ്റുകൾ എന്നത് മില്ലി സീമെൻസ് ആണ് 5 1 പിന്നെ നമുക്ക് 0 1 2 5 പിന്നെ 1 0 1പിന്നെ 2 ഈ സ്ഥലത്തു ഇതാണ് രേഖപ്പെടുത്തേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അത് ആദ്യത്തെ ചോദ്യത്തിന്റെ ബാക്കി ആണ് ആദ്യ ചോദ്യം എന്നത് കണ്ടക്ടൻസ് മാട്രിക്സ് കണ്ടെത്തുക എന്നതായിരുന്നു എന്നാൽ ഇവിടെ നിങ്ങൾ നോഡൽ ഇക്വേഷനുകൾ സോൾവ് ചെയ്യേണ്ടതാണ് നോഡ് 1 ലെ വോൾടേജ് ആണ് ചോദിച്ചത് അത് V1 ആണ് അപ്പോൾ നിങ്ങൾ ഈ മാട്രിക്സ് ന്റെ ഇൻവെർസ് കാണേണ്ടതുണ്ട് അതിനു ശേഷം ഉത്തരം V1 V2 V3 എന്നിവ G ഇൻവെർസ് x I എന്ന രീതിയിൽ കിട്ടും ഇനി G യുടെ ഇൻവെർസ് എന്നത് 1 ബൈ 16 kΩ × 16 8 4 8 12 6 4 6 11 എന്നതാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി 1 ബൈ 16 kΩ ഇത് G മാട്രിക്സ് ൽ നിന്നും ആണ് വന്നത് അത് മില്ലി സീമെൻസ് ൽ ആണ് രേഖപ്പെടുത്തുക ഈ മാട്രിക്സ് നെ നിങ്ങൾ കറന്റ് സോഴ്സ് വെക്റ്റർ വച്ച് ഗുണിക്കേണ്ടതാണ് അത് 2 4 പിന്നെ 8 ഉം ആണ് ഞാൻ ഈ 1 മില്ലി ആംപിയർ എന്നത് പൊതു ഘടകം ആയി എടുക്കുന്നു ഈ 1 മില്ലി ആംപിയർ എന്നത് ഈ 1 kΩ ആയി ഗുണിച്ചാൽ നിങ്ങൾക്കു 1 വോൾട് ആണ് ലഭിക്കുക ഇപ്പോൾ നിങ്ങൾക്കു വോൾട് ൽ പ്രതിപാദിക്കാനാകുന്ന നമ്പറുകൾ മാത്രമാണ് ലഭിക്കുക ഈ രണ്ടു മാട്രിക്സ് നിങ്ങൾ ഗുണിച്ചാൽ ആദ്യ റോ എന്നത് 32 കിട്ടും പിന്നെ രണ്ടാമത്തേത് 80 മൂന്നാമത്തേത് 104 ഇതെല്ലാം വോൾട് ആണ് ഇവിടെ V1 മാത്രമേ ചോദിച്ചിട്ടുള്ളു അത് 32 16 അത് 2 വോൾട് ആണ് ഇനി നിങ്ങൾക്കു ചെയ്യാനാകുന്നത് ഇതേ സർക്യൂട് സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ച് പരിശോധിക്കുക എന്നതാണ് ആദ്യം തന്നെ നിങ്ങളുടെ ഉത്തരം ശരിയാണ് എന്ന വിശ്വാസം നൽകും പിന്നെ അത് ഒരു സർക്യൂട് പ്രാക്ടീസ് ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം വീണ്ടും ഇവിടെ നോഡൽ അനാലിസിസ് ഇക്വേഷനുകൾ എഴുതുക എന്നതാണ് എന്നാൽ ഇവിടെ ഒരു വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആണ് അപ്പോൾ വീണ്ടും ഞാൻ നോഡ് 1 നും 2 നും 3 നും ഇക്വേഷനുകൾ എഴുതാൻ പോകുന്നു ആദ്യ നോഡിൽ കണ്ടക്ടൻസുകളുടെ തുക എന്നത് 1 5 മില്ലി സീമെൻസ് ആണ് നോഡ് 1 നും 2 നും ഇടയിൽ 1 മില്ലി സീമെൻസ് ആണ് നോഡ് 1 നും 3 നും ഇടയിൽ ഒന്നുമില്ല ഓർക്കുക ഈ കൺട്രോൾഡ് സോഴ്സ് ആണ് നോഡ് 3ൽ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോഡ് 3 ന്റെ ഇക്വേഷൻ മാത്രമേ ഇവിടെ ബാധിക്കുകയുള്ളൂ മറ്റുള്ളവ അങ്ങനെ തന്നെ ആയിരിക്കും നോക്കിയാൽ മനസ്സിലാകും ഈ സർക്യൂട് കഴിഞ്ഞ ചോദ്യത്തിലേതു തന്നെ ആണ് ഇവിടെ നമുക്ക് 1 മില്ലി സീമെൻസ് ഉണ്ട് അകെ കണ്ടക്ടൻസ് എന്നത് 2 5 മില്ലി സീമെൻസ് ആണ് പിന്നെ 1 മില്ലി സീമെൻസ് ഇവിടെ നോക്കിയാൽ കാണാം കറന്റ് എന്നത് നോഡ് 3 ൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത് ഇവിടെ ഒരു കണ്ടക്ടൻസ് ഉണ്ട് എന്നാൽ അതോടൊപ്പം ഒരു വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ഉണ്ട് അത് Vx ആണ് അത് V1 V2 ആണ് ഈ 1 മില്ലി സീമെൻസ് എന്നത് V1 V2 വച്ച് ഗുണിക്കുമ്പോൾ അത് 1 മില്ലി സീമെൻസ് എന്നത് V1 ന്റെ കോളത്തിലും 1മില്ലി സീമെൻസ് എന്നത് V2 ന്റെ കോളത്തിലും ചേർക്കപെടുന്നു അപ്പോൾ ഇവിടെ നമുക്ക് 2 മില്ലി സീമെൻസ് ആണ് ഈ നോഡ് 2 ന്റെയും 3 യുടെയും ഇടയ്ക്കു ലഭിക്കുക നമുക്ക് 1 മില്ലി സീമെൻസ് ആണ് ഉണ്ടാകുക 1 എന്നത് അധികമായുള്ളതാണ് പിന്നെ ഒരു 1 കൂടെ ഉണ്ട് അപ്പോൾ അത് 2 മില്ലി സീമെൻസ് ആകുന്നു പിന്നെ V1 എന്നത് യഥാർത്ഥത്തിൽ 0 ആണ് അപ്പോൾ അത് 1 മില്ലി സീമെൻസ് ആയി മാറുന്നു ഇപ്പോൾ നമുക്ക് അൺ നോൺ വോൾടേജ് വെക്റ്റർ എന്നത് 0 7 മില്ലി ആംപിയർ 1 4 മില്ലി ആംപിയർ പിന്നെ 2 8 മില്ലി ആംപിയർ എന്നിവ കടത്തി വിടുന്നതാണ് ഇതിന്റെ ഉത്തരം എന്നത് ഈ G മാട്രിക്സ് നു ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ പ്രശ്നം എന്നത് കഴിഞ്ഞ പ്രശ്നം പോലെ തന്നെ ആണ് സോൾവ് ചെയ്യേണ്ടത് അത് ഈ G മാട്രിക്സ് ന്റെ ഇൻവെർസ് കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങൾക്കു 1 ബൈ 7 kΩ x മാട്രിക്സ്ലെ ഈ നമ്പറുകൾ അത് 0 8 മില്ലി ആംപിയർ വീണ്ടും മില്ലി ആംപിയർ x kΩ അത് നിങ്ങൾക്കു വോൾട് ആണ് തരിക അപ്പോൾ ഇതിന്റെ ഉത്തരം എന്നത് 2 6 പിന്നെ 0 92 വോൾട് ആണ് നിങ്ങളോടു ചോദിച്ചത് നോഡ് 1 ലെ വോൾടേജ് ആണ് അത് 2 2 വോൾട് ആണ് വീണ്ടും നമുക്ക് അതെ സർക്യൂട് തന്നെ ആണ് ഉള്ളത് എന്നാൽ കറന്റ് സോഴ്സ് ന്റെ വാല്യൂ വ്യത്യാസമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആണ് ഒരു വോൾടേജ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് നു പകരം ഉള്ളത് അത് നോഡ് 3 ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോഡ് 3 ന്റെ ഇക്വേഷനുകളെ മാത്രമേ ബാധിക്കൂ അപ്പോൾ നോഡ് 1ന്റെയും 2 ന്റെയും ഇക്വേഷനുകൾ നേരത്തെ ചെയ്തത് പോലെ കണ്ടക്ടൻസ് പിന്നെ അവയുടെ തുക എന്നിവ നോക്കി എഴുതാവുന്നതാണു അതായതു ആദ്യ രണ്ടു റോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഈ കണ്ടക്ടൻസ് നോക്കുക പിന്നെ ഈ കൺട്രോൾഡ് സോഴ്സ് എന്നത് അവഗണിക്കാം ഈ എൻട്രി എന്നത് 0 1 മില്ലി സീമെൻസ് പിന്നെ 2 മില്ലി സീമെൻസ് എന്നിവയായിരിയ്ക്കും എന്തെന്നാൽ ഈ കൺട്രോൾഡ് സോഴ്സ് എന്നത് 2 x Ix ആണ് പിന്നെ ഈ Ix എന്നത് ഈ ദിശയിൽ ആണ് അപ്പോൾ Ix എന്നത് V2 V1 × 1 മില്ലി സീമെൻസ് ആണ് അപ്പോൾ ഇത് 2 മില്ലി സീമെൻസ് x V2 V1 ആണ് അതുകൊണ്ട് ഈ 2 മില്ലി സീമെൻസ് എന്നത് രണ്ടാമത്തെ കോളത്തിലേക്കു ചേർക്കപെടുന്നു പിന്നെ 2 മില്ലി സീമെൻസ് എന്നത് ആദ്യ കോളത്തിലേക്കു അതായതുV1 ലേക്ക് ചേർക്കപ്പെടുന്നു അപ്പോൾ നമുക്ക് 2 മില്ലി സീമെൻസ് പിന്നെ 2 മില്ലി സീമെൻസ് എന്നിവ ഉണ്ട് അത് ഈ കൺട്രോൾഡ് സോഴ്സ് ന്റെ സംഭാവന ആണ് അപ്പോൾ ഈ മൂന്നാമത്തേത് 2 മില്ലി സീമെൻസ് 1 മില്ലി സീമെൻസ് പിന്നേ 2 മില്ലി സീമെൻസ് എന്നതാണ് പിന്നെ അത് x V1 V2 V3 പിന്നെ കറന്റ് സോഴ്സ് എന്നത് 1 മില്ലി ആംപിയർ 2 മില്ലി ആംപിയർ പിന്നെ 3 മില്ലി ആംപിയർ എന്നിവ ആണ് കടത്തി വിടുന്നത് പിന്നെ ഈ നോഡൽ അനാലിസിസ് മാട്രിക്സ് എന്നത് ഇവ അകത്തു കൊടുക്കുക എന്നതാണ് ഈ ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ മാട്രിക്സ് ഇൻവെർസ് എടുക്കുക പിന്നീട് സോൾവ് ചെയ്യുക ഈ കേസിൽ രണ്ടാമത്തെ നോഡ് വോൾടേജ് കണ്ടെത്തുക എന്നതാണ് തീർച്ചയായും ഈ അൺ നോൺ വെക്റ്റർ സോൾവ് ചെയ്താൽ എല്ലാ അളവുകളും ലഭിക്കുന്നതാണ് ഞാൻ ആദ്യം ഈ മാട്രിക്സ് ഇൻവെർസ് പിന്നെ ഈ kΩ എന്നത് ഞാൻ ഈ സൈഡിൽ വെക്കുന്നു അപ്പോൾ 1 kΩ x ഈ സോഴ്സ് വെക്റ്റർ 1 മില്ലി ആംപിയർ പിന്നെ 2 മില്ലി ആംപിയർ പിന്നെ 3 മില്ലി ആംപിയർ അതിന്റെ ഉത്തരം 1 വോൾട് 0 5 വോൾട് പിന്നെ 2 ചോദ്യം നോഡ് രണ്ടിലെ വോൾടേജ് ആണ് അത് 0 ഇവിടെ വീണ്ടും നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് വോൾടേജ് സോഴ്സ് ഉള്ള സർക്യൂട് ഉണ്ട് അതിന്റെ അർഥം എന്നത് നമുക്ക് സൂപ്പർ നോഡ് ഈ നോഡുകൾ തമ്മിൽ ചേർത്ത് ഒരു സൂപ്പർ നോഡ് നിർമിക്കുക നോഡ് 1 എന്നത്തേയും പോലെ 1 5 മില്ലി സീമെൻസ് 1 മില്ലി സീമെൻസ് പിന്നെ 0 നോഡ് 2 ലെ ആകെ കണ്ടക്ടൻസ് എന്നത് 1 5 മില്ലി സീമെൻസ് ആണ് പിന്നെ നോഡ് 3 യിൽ 1 മില്ലി സീമെൻസ് നമുക്ക് ഈ സൂപ്പർ നോഡ് ൽ നിന്നും ആകെ ഒരു കണ്ടക്ടൻസ് മാത്രമേ ഉള്ളൂ അത് 1 മില്ലി സീമെൻസ് ആണ് അതുകൊണ്ട് അത് 1 മില്ലി സീമെൻസ് ആണ് ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ൽ തീർച്ചയായും കറന്റ് സോഴ്സ് നോഡ് 1 ലേക്ക് കടത്തി വിടുന്നുണ്ട് അത് 11 മില്ലി ആംപിയർ ആണ് രണ്ടാമത്തേതിലാണ് ഈ സൂപ്പർ നോഡിലേക്കു കടത്തി വിടുന്ന കറന്റ് എന്നത് അത് 4 18 22 മില്ലി ആംപിയർ ആണ് അവസാനം വോൾടേജ് സോഴ്സ് നു വേണ്ടി ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് അത് V2 V3 എന്നത് 11 വോൾട് ആണ് അപ്പോൾ 1 10 പിന്നെ ഇവിടെ നമുക്ക് 11 വോൾട് ആണ് ഈ മാട്രിക്സിൽ രേഖപ്പെടുത്തിയതെല്ലാം ഇപ്പോൾ കണ്ടക്ടൻസ് അല്ല അപ്പോൾ ഇവയെല്ലാ൦ മില്ലി സീമെൻസ് ആണ് എന്നാൽ ഇവ ഡയമെൻഷൻ ഇല്ലാത്തതാണ് അതുപോലെ സോഴ്സ് വെക്ടറിൽ കറന്റ് വോൾടേജ് എന്നിവ ഉണ്ട് ഇവിടെ ഈ മാട്രിക്സ് എന്നത് പ്രത്യേക രൂപത്തിൽ ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ കണ്ടക്ടൻസ് എന്നത് മില്ലി സീമെൻസ് ൽ ആകണം പിന്നെ ഡയമെൻഷൻ ഇല്ലാത്തവ അപ്പോൾ ഉത്തരം എന്നത് 1 5 1 0 1 1 5 1 1 1 0 ആണ് ഇതാണ് ഇവിടെ നിങ്ങൾക്കു വേണ്ടത് ഇത് കഴിഞ്ഞ സർക്യൂട്ടിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായതു G മാട്രിക്സ് ന്റെ ഇൻവെർസ് എന്നത് 1 ബൈ 11 x 10 kΩ 4 kΩ4 4 kΩ 6 kΩ 6 4 kΩ 6 kΩ പിന്നെ 5 ഇതാണ് G ഇൻവെർസ് G മാട്രിക്സ് ൽ കണ്ടക്ടൻസ് പിന്നെ ഡയമെൻഷൻ ഇല്ലാത്തവ എന്നിവ ഉണ്ടായിരുന്നതിൽ G ഇൻവെർസ് ലും അത് ബാധകമാണ് അതുകൊണ്ടു അത് കണക്കു കൂട്ടുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഇവിടെ സോഴ്സ് വെക്റ്റർ ഉണ്ട് അത് 11 മില്ലി ആംപിയർ 22 മില്ലി ആംപിയർ പിന്നെ 11 വോൾട് അപ്പോൾ അളവുകൾ നിങ്ങൾക്കു കണക്ക് കൂട്ടാവുന്നതാണ് അത് 6 2 പിന്നെ 13 വോൾട് ആണ് നിങ്ങളോടു ചോദിച്ചത് നോഡ് 3 ആണ് അത് 13 വോൾട് അവസാനത്തെ പ്രോബ്ലെത്തിലേക്കു സ്വാഗതം ഇവിടെ നമുക്ക് ഒരു വോൾടേജ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ആണ് ഉള്ളത് ഇത് സോൾവ് ചെയ്ത് നോഡ് 3 ലെ വോൾടേജ് എത്ര എന്ന് കണ്ടു പിടിക്കുക ആണ് വേണ്ടത് ഇത് പല രീതിയിൽ ചെയ്യാം സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് ഇവിടെ നാം നോക്കുക നോഡൽ അനാലിസിസ് ഉപയോഗിച്ചു എങ്ങനെ ചെയ്യാം എന്നതാണ് മറ്റേ രീതിയിൽ ചെയ്താലും അതെ ഉത്തരം തന്നെ ലഭിക്കും ഞാൻ ഇവിടെ നോഡൽ അനാലിസിസ് എങ്ങനെ ചെയ്യാം എന്ന് വീണ്ടും കാണിക്കുന്നു നമുക്ക് ഒരു വോൾടേജ് സോഴ്സ് ഉള്ളതിനാൽ നമുക്ക് നോഡ് 2 നോഡ് 3 എന്നിവ ഒന്നിപ്പിച്ചു ഒരു സൂപ്പർ നോഡ് ആക്കണം അത് ഇത് പോലെ ഇരിക്കും 5 മില്ലി സീമെൻസ് 1 മില്ലി സീമെൻസ് പിന്നെ 0 അത് നോഡ് 1 നു ആണ് പിന്നെ ഈ നോഡ് 2 നും 3 നും ആയി ആകെ കണ്ടക്ടൻസ് എന്നത് 1 5 മില്ലി സീമെൻസ് പിന്നെ 1 മില്ലി സീമെൻസ് എന്നിങ്ങനെ ആണ് സൂപ്പർ നോഡിൽ നിന്നും നോഡ് 1 ലേക്കുള്ള കണ്ടക്ടൻസ് എന്നത് 1 മില്ലി സീമെൻസ് ആണ് അവസാനം നമുക്ക് വോൾടേജ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ഇക്വേഷൻ ഉണ്ട് അത് നോഡ് 2 ന്റെയും 3 ന്റെയും ഇടയിൽ ഉള്ള വോൾടേജ് ആണ് അവിടെയാണ് വോൾടേജ് സോഴ്സ് Vx നാം കണക്ട് ചെയ്തത് അത് V1 V2 ആണ് ലളിതമാക്കുമ്പോൾ അത് V1 2 V2 V3 എന്നത് 0 എന്ന് കിട്ടുന്നു അപ്പോൾ നിങ്ങൾക്കു 1 2 പിന്നെ 1 എന്ന് കിട്ടുന്നു അപ്പോൾ നമുക്ക് അൺ നോൺ വെക്റ്റർ ഉണ്ട് ഇവിടെ സോഴ്സ് വെക്റ്റർ എന്നത് 6 5 മില്ലി ആംപിയർ ആണ് പിന്നെ ആകെ കറന്റ് എന്നത് 6 1 മില്ലി ആംപിയർ ആണ് അവസാനമായി നമുക്ക് ചെയ്യേണ്ടത് വോൾടേജ് കൺട്രോൾഡ് വോൾടേജ് സോഴ്സ് ന്റെ ഇക്വേഷൻ എഴുതുക എന്നതാണ് ഇവിടെ വലതു വശത്തു 0 ആണ് അപ്പോൾ നമുക്കുള്ളത് G മാട്രിക്സ് x അൺ നോൺ വെക്റ്റർ എന്നത് സോഴ്സ് വെക്റ്റർ നു തുല്യമാണ് എന്നതാണ് അതിൽ നിന്നും G ഇൻവെർസ് x സോഴ്സ് വെക്റ്റർ എന്നത് നമുക്ക് നോഡ് വോൾടേജ് നൽകുന്നു ഇതിൽ ചോദിച്ചത് നോഡ് 3 ന്റെ വോൾടേജ് ആണ് അത് 4